അവസാന വീഡിയോയിൽ ഒരു വളയത്തിലെ മാക്സിമൽ ഐഡിയലുകളെക്കുറിച്ച് ഞാൻ സംസാരിച്ചു യൂണിറ്റിയിലുള്ള ഓരോ കമ്മ്യൂട്ടേറ്റീവ് റിംഗിനും മാക്സിമൽ ഐഡിയലുണ്ടെന്ന് ഞാൻ പ്രത്യേകിച്ച് കാണിച്ചു ഇതിനായി നമ്മൾ സോൺസ് ലെമ്മ ഉപയോഗിച്ചു ആ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ ഇത് ഒരു പ്രധാന വസ്തുതയാണ് തെളിവ് അത്ര പ്രധാനമല്ല അതിനാൽ സോൺസ് ലെമ്മയെക്കുറിച്ച് നിങ്ങൾക്ക് പരിചയമില്ലെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ച് വിഷമിക്കേണ്ടതില്ല ഓരോ റിംഗിലും മാക്സിമൽ ഐഡിയലുകൾ അടങ്ങിയിരിക്കുന്നു എന്നതാണ് തിയറത്തിന്റെ പ്രസ്താവന ഈ കോഴ്സിൽ നമ്മൾ അത് ഉപയോഗിക്കും അതിനാൽ മുമ്പത്തെ വീഡിയോയിലോ അവസാന രണ്ട് വീഡിയോകളിലോ നമ്മൾ പ്രൈം ഐഡിയലുകളെക്കുറിച്ച് സംസാരിച്ചു പ്രൈം ഐഡിയലുകളും മാക്സിമൽ ഐഡിയലുകളും ഒരു റിംഗിലെ ഐഡിയലുകളുടെ പ്രധാന ക്ലാസുകളാണ് മാത്രമല്ല നമ്മൾ ഇന്റഗ്രൽ ഡൊമെയ്നുകളെക്കുറിച്ചും സംസാരിച്ചു ഇന്റഗ്രൽ ഡൊമെയ്ൻ ഒരു റിംഗാണ് അവിടെ സീറോ ഐഡിയൽ ഒരു പ്രൈം ഐഡിയലാണ് അതിനാൽ കഴിഞ്ഞ കുറച്ച് വീഡിയോകളിൽ നമ്മൾ ചെയ്യുന്ന ഈ ആശയങ്ങളെല്ലാം പരിചയപ്പെടാൻ ഈ വീഡിയോയിൽ ഞാൻ ചില പ്രശ്നങ്ങൾ ചെയ്യാൻ പോകുന്നു അതിനാൽ ഇത് പ്രശ്നങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു വീഡിയോയാണ് അതിനാൽ ആദ്യത്തെ പ്രശ്നം ഇനിപ്പറയുന്നവയാണ് ഒരു പരിമിത ഇന്റഗ്രൽ ഡൊമെയ്ൻ ഒരു ഫീൽഡാണെന്ന് കാണിക്കുക അതിനാൽ ഒരു പരിമിത ഇന്റഗ്രൽ ഡൊമെയ്ൻ എന്താണ് എന്ന് ഓർക്കുക ഇന്റഗ്രൽ ഡൊമെയ്ൻ എന്താണെന്ന് നിങ്ങൾക്കറിയാം ഇത് പൂജ്യ ഐഡിയൽ ഒരു പ്രൈം ഐഡിയലായ വളയം ആണ് പരിമിതമെന്നാൽ അർത്ഥം പരിമിതമായ നിരവധി ഘടകങ്ങൾ മാത്രമേ ഉള്ളൂ എന്നാണ് അതിനാൽ നമുക്ക് ഇത് ചെയ്യാം അതിനാൽ R ഒരു ഇന്റഗ്രൽ ഡൊമെയ്നായിരിക്കട്ടെ R പരിമിതമാണെന്ന് കരുതുക അതിനാൽ ഇതാണ് അനുമാനം അതിനാൽ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ R ന് പരിമിതമായ നിരവധി ഘടകങ്ങൾ മാത്രമേ ഉള്ളൂ അതിനാൽ നമുക്ക് അത് പട്ടികപ്പെടുത്താം അതിനാൽ അവിടെ നമുക്ക് a 1 a 2 a n എന്ന് വിളിക്കാം അതിനാൽ R ഇതുപോലെയാണെന്ന് പറയാം അതിനാൽ ഇവിടെയാണ് പരിമിത അനുമാനത്തെ വിമർശനാത്മകമായി ഉപയോഗിക്കുന്നത് എന്ന് ഓർക്കുക R ന് പരിമിതമായ നിരവധി ഘടകങ്ങൾ മാത്രമേ ഉള്ളൂ അവയെ n എന്ന് വിളിക്കാം അതിനാൽ ഞാൻ അവയെ a 1 a 2 a n എന്ന് വിളിക്കാം ഇപ്പോൾ ഞാൻ ഇനിപ്പറയുന്നവ പരിഗണിക്കും അതിനാൽ തീർച്ചയായും 1 എന്നത് R ന്റെ ഒരു ഘടകമാണെന്ന് ഓർക്കുക 1 എന്താണെന്ന് ഞാൻ വ്യക്തമാക്കുന്നില്ല ഒന്ന് a 1 ആകാം ഒന്ന് a 2 ആകാം അങ്ങനെ ഒന്ന് എന്താണെന്ന് എനിക്ക് അറിയേണ്ട ആവശ്യമില്ല എല്ലാ ഘടകങ്ങളും ഞാൻ ശ്രദ്ധിക്കുന്നു അവയെല്ലാം എനിക്ക് തുല്യമാണ് ഇപ്പോൾ പരിഗണിക്കുക R ന്റെ ഓരോ ഘടകങ്ങളും a 1 കൊണ്ട് ഗുണിക്കുക അതിനാൽ ഞാൻ ചെയ്യുന്നത് a 1 a 1 a 1 പരിഗണിക്കുക ഇത് a 1 സ്ക്വയർഡ് ആണ് a1 a2 a1 a3 a1 an അങ്ങനെ അതിനാൽ ഈ n ഘടകങ്ങൾ നമുക്ക് പരിഗണിക്കാം ഇപ്പോൾ ഇവയെല്ലാം വ്യത്യസ്തമാണെന്ന് ഞാൻ അവകാശപ്പെടുന്നു അതിനാൽ റിംഗിന്റെ എല്ലാ ഘടകങ്ങളിലും a1 ഗുണനം a1 നിങ്ങൾ തിരഞ്ഞെടുക്കുക അവ വ്യത്യസ്തമാണെന്ന് ഞാൻ അവകാശപ്പെടുന്നു എന്തുകൊണ്ടാണ് ഇത് അതിനാൽ നമുക്ക് ഇത് തെളിയിക്കാം കാരണം അവ വ്യത്യസ്തമാകാതിരിക്കാം നിങ്ങൾ ai aj എന്നീ രണ്ട് വ്യത്യസ്ത ഘടകങ്ങളെ a1 കൊണ്ട് ഗുണിക്കുമ്പോൾ ചിലപ്പോൾ തുല്യമാകാം അത് ഒരു സാധ്യതയാണ് ഇന്റഗ്രൽ ഡൊമെയ്നിൽ ഇത് സംഭവിക്കുന്നില്ലെന്ന് ഞാൻ പറയട്ടെ അതിനാൽ a1 ai a1 aj ന് തുല്യമാണെന്ന് കരുതുക ഇത് സംഭവിക്കുന്നുവെന്ന് കരുതുക ഇത് സാധാരണ റിംഗ് പ്രോപ്പർട്ടികൾ സൂചിപ്പിക്കുന്നുവെന്ന് ഞാൻ അവകാശപ്പെടുന്നു ഇത് a1 ആണ് ഞാൻ ഒരു വശത്തേക്ക് a1 aj എടുക്കുന്നു ഓരോ പദത്തിൽ നിന്നും 1 ഫാക്ടർ ചെയ്യുന്നു a1 0 എന്ന് എഴുതാം എന്നാൽ ഇപ്പോൾ R ഒരു ഇന്റഗ്രൽ ഘടകമായതിനാൽ ഓർക്കുക നമുക്കറിയാം ഇന്റഗ്രൽ ഡൊമെയ്നിന്റെ ഒരു തുല്യമായ പ്രോപ്പർട്ടി നിങ്ങൾക്ക് 2 ഘടകങ്ങൾ ഉണ്ടെങ്കിൽ അവയുടെ ഗുണനഫലം 0 ആണെങ്കിൽ അവയിലൊന്ന് 0 ആണ് അതിനാൽ a1 0 ആണ് അല്ലെങ്കിൽ ai aj 0 ആണ് ഇപ്പോൾ a1 0 അല്ലെന്ന് കരുതുക അതിനാൽ a1 എന്നത് 0 അല്ലെന്ന് ഞാൻ കരുതാൻ പോകുന്നു ഒരു മിനിറ്റിനുള്ളിൽ ഞാൻ എന്തിനാണ് ഇത് അനുമാനിക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണാം a 1 എന്നത് 0 അല്ലെന്ന് ഞാൻ അനുമാനിക്കുന്നു ഞാൻ ആരംഭിക്കാൻ a1 തിരഞ്ഞെടുക്കുകയാണെന്ന് ഓർക്കുക അതിനാൽ ഞാൻ പൂജ്യമല്ലാത്ത ഘടകങ്ങളുമായി മാത്രമേ പ്രവർത്തിക്കൂ അതിനാൽ a1 പൂജ്യമല്ലാത്തതാണ് അതിനാൽ ഇത് സാധ്യമല്ല അതിനർത്ഥം ai aj 0 ആണ് പക്ഷേ അതായത് ai aj ന് തുല്യമാണ് അതിനാൽ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ a1 ai aj എന്നിവയെ ഒരേ ഘടകത്തിലേക്ക് ഗുണിച്ചാൽ മറ്റൊരു തരത്തിൽ a1 ai ai aj ന് തുല്യമാണെങ്കിൽ ai aj ന് തുല്യമാണ് അതിനാൽനമ്മൾ എന്താണ് നിഗമനം ചെയ്തത് a1 എന്നത് 0 അല്ലെങ്കിൽ a1 a സ്ക്വയർഡ് a1 a2 a1 an എന്നിവ വ്യത്യസ്തമായ ഘടകങ്ങളാണ് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ R എന്നത് a1 a സ്ക്വയർഡ് a1 a2 a1 an എന്നിവയ്ക്ക് തുല്യമാണ് ഓർക്കുക കാരണം R ഒരു റിംഗാണ് R ന്റെ ഘടകങ്ങളെ ഗുണിക്കുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും R ന്റെ ഘടകങ്ങൾ ലഭിക്കും അതിനാൽ a1 സ്ക്വയർഡ് a1 a2 a1 an സെറ്റ് തീർച്ചയായും R ന്റെ ഉപസെറ്റാണ് പക്ഷേ R ന് വ്യത്യസ്തമായ n ഘടകങ്ങൾ ഉള്ളതിനാൽ അത് R ന് തുല്യമായിരിക്കണം അതിനാൽ R ഈ സെറ്റിന് തുല്യമാണ് എന്നാൽ 1 R ൽ അടങ്ങിയിരിക്കുന്നു അതിനാൽ ഈ a1 സ്ക്വയർഡ് a1 a2 a1 an സെറ്റിൽ 1 അടങ്ങിയിരിക്കുന്നു സെറ്റ് 1 മുതൽ n വരെയുള്ള ചില i ൽ 1ai 1 ന് തുല്യമാണ് അത് എന്താണെന്ന് നമുക്കറിയില്ല അത് എന്താണെന്ന് നമുക്ക് അറിയേണ്ട ആവശ്യമില്ല എന്നാൽ ചില i ന് a1 ai 1 ന് തുല്യമാണ് അതിനാൽ a1 ന് ഒരു ഗുണിത വിപരീതമുണ്ട് ഞാൻ എഴുതാം അതിനാൽ a1 ന് ഒരു ഗുണിത വിപരീതമുണ്ട് അതിനാൽ a1 പൂജ്യമല്ലാത്തതാണെങ്കിൽ a1 ന് ഗുണിത വിപരീതമുണ്ടെന്ന് നമ്മൾ നിഗമനം ചെയ്യുന്നു R ൻറെ പൂജ്യമല്ലാത്ത ഏതൊരു ഘടകത്തിനും സമാന വാദം ഉപയോഗിക്കാം നമ്മൾ a1 ൽ ആരംഭിച്ചു പക്ഷേ a1 നുപകരം R ന്റെ പൂജ്യമല്ലാത്ത ഏതെങ്കിലും ഘടകം തിരഞ്ഞെടുത്ത് അതിനെ ഗുണിക്കാം വ്യത്യസ്ത n ഘടകങ്ങളുണ്ടെന്ന് വാദിക്കുന്നു അതിനാൽ അവയിലൊന്ന് 1 ആയിരിക്കണം അതിനാൽ ആ ഘടകത്തിന് വിപരീതമുണ്ട് അതിനാൽ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ R ഒരു ഫീൽഡാണ് അതിനാൽ പൂജ്യമല്ലാത്ത ഓരോ ഘടകത്തിനും ഒരു ഗുണിത വിപരീതം ഉള്ള ഒരു വളയം നിങ്ങൾക്ക് ലഭിച്ചാലുടൻ നിർവചനം അനുസരിച്ച് അത് ഒരു ഫീൽഡാണ് പൂജ്യം അല്ലാത്ത ഓരോ ഘടകത്തിനും ഗുണിത വിപരീതമുള്ള ഒരു വളയമാണ് ഫീൽഡ് അതിനാൽ R ഒരു പരിമിത ഇന്റഗ്രൽ ഡൊമെയ്നാണെന്ന് ഞാൻ അനുമാനിക്കുകയും R ഒരു ഫീൽഡാണെന്ന് കാണിക്കുകയും ചെയ്തു അതിനാൽ ഇതാണ് പ്രശ്നം ഇപ്പോൾ അടുത്ത പ്രശ്നം തുടരുന്നതിനുമുമ്പ് അത് പരിമിതമാണെന്നും ഒരു ഇന്റഗ്രൽ ഡൊമെയ്ൻ അല്ലെങ്കിൽ നിർണായകമാണെന്നും ഉള്ള വസ്തുതയെ വിശദീകരിക്കാൻ ഞാൻ രണ്ട് ഉദാഹരണങ്ങൾ നൽകാൻ പോകുന്നു അതില്ലാതെ R ഒരു ഫീൽഡ് ആണെന്ന് നിങ്ങൾക്ക് നിഗമനം ചെയ്യാൻ കഴിയില്ല അതിനാൽ R എന്നത് പൂർണ്ണസംഖ്യകളുടെ വളയമായ Z ആയി കണക്കാക്കാം അതിനാൽ ഇതൊരു ഇന്റഗ്രൽ ഡൊമെയ്നാണ് പക്ഷേ ഇത് ഒരു ഫീൽഡ് അല്ലെന്ന് നമുക്കറിയാം കാരണം ഉദാഹരണത്തിന് പൂജ്യമല്ലാത്ത സംഖ്യയായ 2 ന് ഗുണിത വിപരീതമില്ല അതിനാൽ ഇത് ഒരു ഇന്റഗ്രൽ ഡൊമെയ്നാണ് ഇത് ഒരു ഫീൽഡല്ല മുമ്പത്തെ പ്രശ്നം ഇവിടെ ബാധകമല്ലാത്തതിന്റെ കാരണം R പരിമിതമല്ലാത്തത് കൊണ്ടാണ് അതിനാൽ മുമ്പത്തെ വാദം ഇവിടെ പ്രവർത്തിക്കില്ല ഉദാഹരണത്തിന് നിങ്ങൾ പൂർണ്ണസംഖ്യകളുടെ എല്ലാ ഘടകങ്ങളെയും 2 കൊണ്ട് ഗുണിച്ചാൽ നിങ്ങൾക്ക് 2 n ലഭിക്കും ഇവിടെ n Z ൽ ആണ് ഇത് Z ന് തുല്യമല്ല നിങ്ങൾ എല്ലാ ഘടകങ്ങളെയും 2 കൊണ്ട് ഗുണിച്ചാൽ നിങ്ങൾക്ക് അനന്തമായ ഒരു സെറ്റും ലഭിക്കും മുമ്പത്തെ പ്രശ്നത്തിൻറെ വാദം ഉപയോഗിച്ച് പക്ഷേ ഇത് Z ന് തുല്യമല്ല അതിനാൽ 1 ഇതിൽ ഇല്ല മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ 2 ന് ഒരു ഗുണിത വിപരീതമില്ല അതിനാൽ മുമ്പത്തെ വാദം R പരിമിതമാണെന്ന വസ്തുതയെ വിമർശനാത്മകമായി ആശ്രയിച്ചിരിക്കുന്നു അതിനാൽ നിങ്ങൾക്ക് അനന്തമായ ഇന്റഗ്രൽ ഡൊമെയ്ൻ ഉണ്ടെങ്കിൽ അത് ഒരു ഫീൽഡ് ആകേണ്ടതില്ല മറുവശത്ത് നിങ്ങൾക്ക് ഒരു പരിമിത വളയം ഉണ്ടെങ്കിലും അത് വീണ്ടും ഒരു ഇന്റഗ്രൽ ഡൊമെയ്ൻ അല്ലെങ്കിൽ ഒരു ഫീൽഡ് ആകേണ്ടതില്ല അതിനാൽ ഇത് ഒരു ഫീൽഡ് അല്ല അതിനാൽ ഇത് വ്യക്തമായ ഒരു പ്രസ്താവനയാണ് കാരണം ഒരു ഫീൽഡ് നിർവചനം അനുസരിച്ച് ഇന്റഗ്രൽ ഡൊമെയ്നിലാണ് അതിനാൽ ഇത് ഒരു ഇന്റഗ്രൽ ഡൊമെയ്ൻ അല്ല മുമ്പത്തെ വാദം ഇവിടെ പരാജയപ്പെടുന്നത് എന്തുകൊണ്ടാണെന്ന് ഞാൻ വേഗത്തിൽ നിങ്ങളോട് പറയാം ഉദാഹരണത്തിന് നിങ്ങൾ ഓർമിക്കുകയാണെങ്കിൽ 2 ബാറിന് ഈ റിംഗിൽ ഗുണിത വിപരീതമില്ല നിങ്ങൾ Z മോഡ് 4 Z ഓർക്കുന്നുവെങ്കിൽ ശിഷ്ടങ്ങളുടെ സെറ്റ് മൊഡ്യൂളോ 4 ആണ് അതിനാൽ ഘടകങ്ങളെ 0 ബാർ 1 ബാർ 2 ബാർ 3 ബാർ എന്ന് എഴുതാം ഓരോ ഘടകത്തെയും 2 ബാർ കൊണ്ട് ഗുണിച്ചാൽ നിങ്ങൾക്ക് എന്ത് ലഭിക്കും അതിനാൽ നിങ്ങൾക്ക് 2 ബാർ x 0 ബാർ0 ബാർ 2 ബാർ x 1 ബാർ1 ബാർ 2 ബാർ x 2 ബാർ 0 ബാർ 2 ബാർ x 3 ബാർ 6 ബാർ 2 ബാർ അതിനാൽ 2 കൊണ്ട് ഗുണിച്ച ശേഷം നമുക്ക് 4 വ്യത്യസ്ത ഘടകങ്ങളല്ല 2 വ്യത്യസ്ത ഘടകങ്ങൾ മാത്രമേ ഉള്ളൂ മുമ്പ് പരിമിത ഇന്റഗ്രൽ ഡൊമെയ്നുകളുടെ കാര്യത്തിൽ പൂജ്യമല്ലാത്ത ഘടകത്താൽ ഗുണിച്ചാൽ നിങ്ങൾക്ക് എല്ലാ റിംഗ് ഘടകങ്ങളും ലഭിക്കും ഇവിടെ നിങ്ങൾക്ക് എല്ലാ റിംഗ് ഘടകങ്ങളും ലഭിക്കുന്നില്ല 0 ബാർ 2 ബാർ മാത്രമേ ലഭിക്കുന്നുള്ളൂ 2 ബാർ x 1 ബാർ 2 ബാർ ആണെന്ന് ഞാൻ എഴുതുന്നു അതിനാൽ 1 ബാർ ഈ ഗുണിതങ്ങളിൽ ഒന്നല്ല അതിനാൽ 2 ബാറിന് ഗുണിത വിപരീതമില്ല അതിനാൽ നിങ്ങൾക്ക് ഒരു ഇന്റഗ്രൽ ഡൊമെയ്ൻ ഉണ്ടെങ്കിലും അത് പരിമിതമല്ലെങ്കിൽ അത് ഒരു ഫീൽഡ് അല്ലെന്ന് ഈ മുൻ ഉദാഹരണങ്ങൾ കാണിക്കുന്നു നിങ്ങൾക്ക് ഒരു പരിമിത റിംഗ് ഉണ്ടെങ്കിൽ അത് ഒരു ഇന്റഗ്രൽ ഡൊമെയ്ൻ അല്ല അത് ഒരു ഫീൽഡും അല്ല അതിനാൽ നമുക്ക് ഇപ്പോൾ തുടരാം അതിനാൽ നമുക്ക് അടുത്ത ഒരു പ്രശ്നം കൂടി ചെയ്യാം പ്രശ്ന നമ്പർ 2 ഇനിപ്പറയുന്നവയാണ് ഏതെങ്കിലും റിംഗ് R യെ കൂടുതലായി അനുമാനങ്ങൾ ഒന്നുമില്ലാതെ നമുക്ക് പരിഗണിക്കാം ഇത് R റിംഗ് ആണ് I ഉം J ഉം R ന്റെ ഐഡിയലുകളാകട്ടെ അതിനാൽ I ഇന്റർസെക്ഷൻ J യിലെ ഏത് ഘടകവും കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു യഥാർത്ഥത്തിൽ ഞാൻ ഇത് ഇതുപോലെ എഴുതരുത് അതിനാൽ ഇനിപ്പറയുന്നവ പോലെ എഴുതാം ഞാൻ ഇത് വിശദീകരിക്കാം R മോഡ് IJ എന്ന കോഷ്യന്റ് വളയത്തിലെ I ഇന്റർസെക്ഷൻ J യിലെ ഏതെങ്കിലും ഘടകത്തിന്റെ ശിഷ്ടം ശൂന്യമാണ് അതിനാൽ ഇതിന് കുറച്ച് വിശദീകരണം ആവശ്യമാണ് അതിനാൽ പരിഹാരം കാണുന്നതിന് മുമ്പ് ഞാൻ ഇവിടെ എന്താണ് ചെയ്യേണ്ടതെന്ന് ശ്രദ്ധാപൂർവ്വം വിശദീകരിക്കാം അതിനാൽ I J ഐഡിയലുകളാണെങ്കിൽ ഗുണിതഫലം ഒരു ഐഡിയലാണെന്ന് ഞാൻ സൂചിപ്പിക്കുന്നു അതിനാൽ രണ്ട് ഐഡിയലുകളുടെ ഗുണിതഫലത്തെ നിർവ്വചിച്ച മുമ്പത്തെ വീഡിയോകളിലൊന്നിൽ ഇതുണ്ട് അതിനാൽ I J എന്നിവയുടെ ഘടകങ്ങളുടെ ഗുണിതഫലം എടുത്ത് അവയിൽ ഏതെങ്കിലും പരിമിത സംഖ്യകൾ ചേർത്ത് ലഭിച്ച ഘടകങ്ങളാണ് ഇവ അതിനാൽ ഇത് ഓർത്തിരിക്കാനുള്ള മാർഗ്ഗം I J എന്നിവയുടെ ഘടകങ്ങളുടെ ഗുണിതഫലത്തിൻറെ പരിമിതമായ തുകകളാണ് I J യിൽ അടങ്ങിയിരിക്കുന്നത് അതിനാൽ ഇതൊരു ഐഡിയൽ ആണ് ഇത് ഒരു എളുപ്പ പരിശോധനയാണ് അതിനാൽ നമുക്ക് R മോഡ് IJ പരിഗണിക്കാം അതിനാൽ കോഷ്യന്റ് റിങ്ങും ഓർക്കുക ഓരോ തവണയും നിങ്ങൾക്ക് ഒരു റിങ്ങും ആ റിങ്ങിൽ ഒരു ഐഡിയലുo ഉള്ളപ്പോൾ നിങ്ങൾക്ക് കോഷ്യന്റ് റിങ് പരിഗണിക്കാം ഇപ്പോൾ പ്രശ്നം പറയുന്നത് a I ഇന്റർസെക്ഷൻ J യുടെ ഒരു ഘടകമായിരിക്കട്ടെ I ഇന്റർസെക്ഷൻ J യുടെ ഏതെങ്കിലും ഘടകത്തിന്റെ ശിഷ്ടമായിരിക്കട്ടെ അതിനാൽ a I ഇന്റർസെക്ഷൻ J യുടെ ഒരു ഘടകമായിരിക്കട്ടെ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ a I ലും J ലും ഉണ്ട് R മോഡ് IJ യിലെ a യുടെ ശിഷ്ടം ശൂന്യമാണെന്ന് കാണിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു ശിഷ്ടത്തെ a ബാർ കൊണ്ട് സൂചിപ്പിക്കുന്നു പക്ഷേ ഇത് a യുടെ കോസെറ്റാണെന്ന് ഓർക്കുക അതിനാൽ a യുടെ ശിഷ്ടം aIJ ആണ് കൂടാതെ R മോഡ് IJ ന്റെ ഒരു ഘടകവുമുണ്ട് ഓർക്കുക ഒരു കൂട്ടമെന്ന നിലയിൽ കോഷ്യന്റ് വളയത്തിൽ സങ്കലന പ്രവർത്തനത്തിന് കീഴിലുള്ള എല്ലാ ശേഷിച്ച കോസറ്റുകളും അടങ്ങിയിരിക്കുന്നു അതിനാൽ a യുടെ ശിഷ്ടമാണ് ഇത് അവസാനമായി നിൽപോട്ടൻറ് എന്താണ് മുമ്പത്തെ വീഡിയോയിൽ ഞാൻ നിർവചിച്ച കാര്യമാണിത് ഒരു വളയത്തിന്റെ ഘടകത്തെ നിൽപോട്ടൻറ് എന്ന് വിളിക്കുന്നു ചില പോസിറ്റീവ് സംഖ്യ n ൽ a പവർ n 0 ആണെങ്കിൽ a നിൽപോട്ടൻറ് എന്ന് വിളിക്കുന്നു ഒരു നിശ്ചിത എണ്ണം തവണ നിങ്ങൾക്ക് a കൊണ്ട് ഗുണിച്ചാൽ a യുടെ ചില പവർ 0 ആയി ലഭിച്ചാൽ അതിനെ നിൽപോട്ടൻറ് എന്ന് വിളിക്കുന്നു aIJ കോഷ്യന്റ് റിംഗ് R മോഡ് IJ ന്റെ നിൽപോട്ടൻറ് ഘടകമാണെന്ന് നമുക്ക് കാണിക്കണം മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ അതായത് aIJ പവർ n 0 ന് തുല്യമാണെന്ന് കാണിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു ഈ തുല്യത R മോഡ് IJ വളയത്തിൽ സംഭവിക്കണം കാരണം R മോഡ് IJ യിലെ a യുടെ ശിഷ്ടം ശൂന്യമാണ് അതിനാൽ aIJ പവർ n ചില n ന് 0 യ്ക്ക് തുല്യമാണ് എന്നാൽ ഓർക്കുക കോഷ്യന്റ് വളയത്തിലെ ഗുണന നിർവചനത്തിൽ റിംഗിന് കീഴിലുള്ള aIJ പവർ n എന്താണ് ഇത് കേവലം a പവർ nIJ ആണ് പക്ഷേ ഞാൻ യഥാർത്ഥത്തിൽ ഇവിടെ 0 ബാർ എഴുതട്ടെ കാരണം 0 എന്നതിനർത്ഥം നിങ്ങൾ റിങ്ങിന്റെ 0 ഘടകവുമായി ആശയക്കുഴപ്പത്തിലാകാം അതിനാൽ 0 ബാർ R മോഡ് IJ റിംഗിന്റെ 0 ഘടകമാണ് അതിനാൽ aIJ പവർ n a പവർ nIJ ആണ് ഓർക്കുക ഇത് 0 ബാറിന് തുല്യമാകുന്നതിന്നമ്മൾക്ക് ചില n ന് a പവർ n IJ ആവേണ്ടത് ആവശ്യമാണ് ഇത് ഇപ്പോൾ പ്രശ്നത്തിലെ എല്ലാം വിവർത്തനം ചെയ്തതിനുശേഷമാണ് ഇത് നമ്മൾ കുറച്ചുതല്ല ഇത് a I ഇന്റർസെക്ഷൻ J യിൽ ഉൾപ്പെടുന്നതാണെങ്കിൽ a പവർ n ചില n ന് IJ യുടേതാണ് ഇപ്പോൾ ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് തിരിച്ചറിഞ്ഞാൽ നിങ്ങൾ എന്താണ് എടുക്കേണ്ടതെന്ന് വ്യക്തമാകും ഓർക്കുക a I എന്നിവയെക്കുറിച്ച് എന്താണ് അറിയുന്നത് a I ഇന്റർസെക്ഷൻ J യിലാണ് അതിനർത്ഥം അത് I യിലും കൂടാതെ J യിലുമാണ് അത് സംഭവിച്ചുകഴിഞ്ഞാൽ ഓർക്കുക a സ്ക്വയർഡ് ഒരു IJ ആണ് കാരണം a സ്ക്വയർഡ് എന്നാൽ axa ആണ് a I യിൽ ആണ് a J യിൽ ആണ് രണ്ട് ഐഡിയലുകളുടെ ഗുണനഫലം നിങ്ങൾ ഓർമിക്കുന്നുവെങ്കിൽ ഗുണനഫലങ്ങളുടെ ആകെത്തുകയാണ് അത് ഒന്ന് ഐഡിയൽ I ൽ നിന്നും മറ്റൊന്ന് ഐഡിയൽ J ൽ നിന്നും ഇവിടെ ഞാൻ ഒരു ഗുണനഫലം axa എടുക്കുന്നു a I യിൽ ആണ് a J യിലാണ് അതിനാൽ axa IJ യിലാണ് അതിനർത്ഥം a സ്ക്വയർഡ് IJ R മോഡ് I J ൽ 0 ആണ് അതിനാൽ അതിനർത്ഥം R മോഡ് IJ യിൽ a ബാർ നിൽപോട്ടന്റാണെന്നാണ് നിഗമനം അതിനാൽ ചോദ്യം I ഇന്റർസെക്ഷൻ J യുടെ ഏതെങ്കിലും ഘടകത്തിന്റെ ശിഷ്ടം R മോഡ് IJ യിൽ നിൽപോട്ടന്റാണെന്ന് നമ്മൾ കാണിച്ചു അത് വാസ്തവത്തിൽ I ഇന്റർസെക്ഷൻ J യുടെ ഏതെങ്കിലും ഘടകത്തിന്റെ a സ്ക്വയർ R മോഡ് IJ യിൽ 0 ആണെന്ന് നമ്മൾ തെളിയിച്ചിട്ടുണ്ട് ഇത് കേവലം നിൽപോട്ടന്റല്ല പക്ഷേ നിങ്ങൾ എടുക്കേണ്ട പവർ വെറും 2 ആണ് അതിനാൽ ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന അടുത്ത പ്രശ്നം IJ യെപ്പറ്റിയും കോഷ്യന്റ് റിങ്ങിനെ പറ്റിയുമുള്ള സങ്കല്പം ഉണ്ടാക്കുക എന്നതാണ് അതിനാൽ ഞാൻ ഇപ്പോൾ ഇനിപ്പറയുന്നവ ചെയ്യട്ടെ R ഒരു ആർബിട്രറി വളയം ആകട്ടെ മുമ്പത്തെ പ്രശ്നത്തിലെന്നപോലെ നമ്മൾ റിംഗിൽ ആരംഭിച്ച് I യും J യും രണ്ട് ഐഡിയലുകളാകട്ടെ I യും J യും R ന്റെ രണ്ട് ഐഡിയലുകളാകട്ടെ അതിനാൽ എനിക്ക് ഒരു വളയവും R ന്റെ രണ്ട് ഐഡിയലുകളും ഉണ്ട് ഇപ്പോൾ ഈ രണ്ട് ഐഡിയലുകളെക്കുറിച്ച് ഞാൻ എന്തെങ്കിലും ഊഹിക്കുകയാണ് IJ R ആണെന്നും രണ്ട് ഐഡിയലുകളുടെ ഗുണനഫലം പോലെ തന്നെ രണ്ട് ഐഡിയലുകളുടെ ആകെത്തുകയെക്കുറിച്ചും നമ്മൾ പഠിച്ചു എന്താണ് ആ തുക അതിനാൽ ഓർക്കുക ഓർക്കാൻ ഞാൻ ചുവപ്പ് നിറം ഉപയോഗിക്കും ഗുണനഫലത്തിൽ നിന്ന് വ്യത്യസ്തമായി IJ ലളിതമാണ് യഥാർത്ഥത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത് ab മാത്രമാണ് ഇവിടെ a I യിലാണ് b J യിലാണ് അതിനാൽ നിങ്ങൾക്ക് രണ്ട് ഘടകങ്ങൾ എടുക്കാം ഘടകങ്ങളിൽ ഒന്ന് I യിൽ നിന്ന് മറ്റൊന്ന് J യിൽ നിന്ന് നിങ്ങൾ അവയുടെ തുക എടുക്കുക നിങ്ങൾ ഇത് എടുക്കുകയും ആ ഘടകങ്ങളുടെ ശേഖരം എടുക്കുകയും ചെയ്താൽ അത് യഥാർത്ഥത്തിൽ ഒരു ഐഡിയലാണ് അത് മുമ്പത്തെ വീഡിയോയിൽ നിന്നുള്ള ഒരു പ്രവർത്തനമാണ് ഇതിനെ നമ്മൾ ഐഡിയൽ IJ എന്ന് വിളിക്കുന്നു അതിനാൽ ഇതാണ് IJ അതിനാൽ ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നു അത് R ന് തുല്യമാണ് അത് പൊതുവായി ശരിയല്ല എന്നാൽ ഈ പ്രശ്നത്തിൽ I യ്ക്കും J യ്ക്കും ഈ പ്രോപ്പർട്ടി ഉണ്ടെന്ന് ഞാൻ അനുമാനിക്കുന്നു IJ R ന് തുല്യമാണ് എന്നത് ഇനിപ്പറയുന്ന പ്രസ്താവന ഞാൻ ഇപ്പോൾ തെളിയിക്കേണ്ടതുണ്ട് അതിനാൽ ഈ പ്രശ്നത്തിന് രണ്ട് ഭാഗങ്ങളുണ്ട് ആദ്യം നമ്മൾ ഒന്ന് പ്രസ്താവിച്ച് അത് പരിഹരിക്കും തുടർന്ന് നമ്മൾ രണ്ടാമത്തെ പ്രസ്താവിക്കുകയും അത് പരിഹരിക്കുകയും ചെയ്യും ആദ്യ പ്രശ്നം IJ I ഇന്റർസെക്ഷൻ J ന് തുല്യമാണെന്ന് കാണിക്കുക എന്നതാണ് അതിനാൽ ഇതിനുള്ള പരിഹാരം നമ്മൾ ആദ്യം ചെയ്യും അതിനാൽ IJ R ന് തുല്യമാണെന്ന അനുമാനത്തിൽ ഗുണനഫലം ഇന്റർസെക്ഷന് തുല്യമാണെന്ന് കാണിക്കുക അതിനാൽ വ്യക്തമായ ഉൾപ്പെടുത്തലിൽ ഒരു കാര്യമുണ്ട് അതിനാൽ തുല്യത കാണിക്കുന്നതിന് I ഇന്റർസെക്ഷൻ J യിൽ IJ അടങ്ങിയിരിക്കുന്നുവെന്ന് നമ്മൾ കാണിക്കും കൂടാതെ I ഇന്റർസെക്ഷൻ J IJ യിൽ അടങ്ങിയിരിക്കുന്നുവെന്നും നമ്മൾ കാണിക്കും ശ്രദ്ധിക്കുക IJ യുടെ ഉൾപ്പെടുത്തൽ I ഇന്റർസെക്ഷൻ J യിൽ അടങ്ങിയിരിക്കുന്നു അത് എല്ലായ്പ്പോഴും സൂക്ഷിക്കുന്നു ഇത് എളുപ്പമുള്ള പരിശോധനയാണ് എല്ലായ്പ്പോഴും സൂക്ഷിക്കുന്നു എന്ന് അർത്ഥമാക്കുന്നത് IJ R ന് തുല്യമാണെന്ന അനുമാനം നമ്മൾക്ക് ആവശ്യമില്ല അതിനാൽ ഇത് പൊതുവായി ശരിയാണ് ആകെത്തുക R ആയ ഐഡിയലുകൾക്ക് മാത്രമല്ല എന്തുകൊണ്ടാണിത് ഇത് എന്തുകൊണ്ടാണെന്ന് ഞാൻ വേഗത്തിൽ കാണിച്ചുതരാം എന്തുകൊണ്ടാണ് ഇത് I J യുടെ ഒരു ഘടകം എടുക്കുക IJ യുടെ ഒരു ഘടകം എന്നാൽ എന്താണ് ആർബിട്രറി ഘടകം ഈ രൂപത്തിലാണ് ai I ലാണ് bi J ൽ ആണ് അതിനാൽ ഒരു ആർബിട്രറി ഘടകം എടുക്കുക ഇപ്പോൾ ai I ലും bi J യിലും ഉണ്ട് അതായത് bi ഒരു റിംഗ് ഘടകമാണ് ai ഒരു ഐഡിയൽ ഘടകമാണ് അതിനർത്ഥം ai bi I ലാണുള്ളത് കാരണം ഓർക്കുക ഐഡിയലിന് ഒരു പ്രോപ്പർട്ടി ഉണ്ട് വളയത്തിലെ എന്തിനെയെങ്കിലും ഐഡിയലിലെ എന്തിനെയെങ്കിലും കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്നത് ഐഡിയലിൽ ആയിരിക്കും അതിനാൽ ai I ലാണ് ഉള്ളത് bi വളയത്തിലാണ് അതിനർത്ഥം ai bi I ലാണുള്ളത് എന്നാണ് എന്നാൽ സമാന കാരണത്താലാണ് bi J യിൽ ഉള്ളത് ai I ലുള്ളത് അതായത് ai ഒരു റിംഗ് ഘടകം ആണ് bi ഒരു ഐഡിയൽ ഘടകമാണ് അവയുടെ ഗുണനഫലം J യിലാണ് അതിനർത്ഥം ai bi I ഇന്റർസെക്ഷൻ J യിൽ ആണ് ഒരിക്കൽ ai bi I ഇന്റർസെക്ഷൻ J യിൽ ആയിരിക്കുമ്പോൾ ഇതെല്ലാം I ഇന്റർസെക്ഷൻയിൽ J യിലാണ് കാരണം I ഇന്റർസെക്ഷൻ J ഒരു ഐഡിയലാണ് ഇത് നമ്മൾ മുമ്പ് തെളിയിച്ച ഒന്നാണ് അല്ലെങ്കിൽ ഇത് ഞാൻ നിങ്ങളോട് തെളിയിക്കാൻ ഇത് ആവശ്യപ്പെടും അതിനാൽ I ഇന്റർസെക്ഷൻ J യ്ക്കുള്ളിൽ നിങ്ങൾക്ക് ഒരു കൂട്ടം ഘടകങ്ങൾ ഉണ്ടെങ്കിൽ അവയുടെ ആകെത്തുക I ഇന്റർസെക്ഷൻ J യിലാണ് അതിനാൽ ഈ ഘടകങ്ങളെല്ലാം I ഇന്റർസെക്ഷൻ J യിലാണ് അതിനാൽ അവയുടെ ആകെത്തുക I ഇന്റർസെക്ഷൻ J യിലാണ് അതിനാൽ I ഇന്റർസെക്ഷൻ J യിൽ IJ യുടെ ഉൾപ്പെടുത്തൽ നിസാരമാണ് ഇത് വളരെ എളുപ്പമാണ് അതിനാൽ വിപരീത ഉൾപ്പെടുത്തൽ ഉണ്ടെന്ന് നമ്മൾ ഇപ്പോൾ തെളിയിക്കും ഇപ്പോൾ I ഇന്റർസെക്ഷൻ J യിൽ IJ അടങ്ങിയിരിക്കുന്നതായി കാണിക്കും ഇത് നിർണായക ഉൾപ്പെടുത്തലാണ് ഇത് പൊതുവായി ശരിയല്ലാത്തതാണ് ഇത് പരിഹരിച്ചതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് ഒരു ഉദാഹരണം നൽകും അതിന് ഈ അനുമാനം ആവശ്യമാണ് അതായത് IJ R ന് തുല്യമാണ് ഇപ്പോൾ IJ R ന് തുല്യമാണെന്നതിനാൽ ഘടകം 1 IJ ൽ അടങ്ങിയിരിക്കുന്നു കാരണം ഈ ഐഡന്റിറ്റി ഘടകം 1 എന്നത് R ൽ ഉള്ള ഒരു റിംഗ് ഘടകമാണ് പക്ഷേ IJ R ന് തുല്യമാണ് അതിനാൽ 1 IJ ലാണ് അതിനാൽ ഘടകങ്ങൾ r I ലും s J യിലും നിലവിലുണ്ട് അതിനാൽ 1 എന്നത് rs ന് തുല്യമാണ് അതിനാൽ 1 എന്നത് IJ യുടെ ഒരു ഘടകമാണ് IJ എന്താണ് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാം IJ എന്നത് ഒന്ന് I യിൽ നിന്നും മറ്റൊന്ന് J യിൽ നിന്നുമുള്ള തുകകളുടെ ശേഖരമാണ് അതിനാൽ 1 rs ന് തുല്യമാണ് അതിനാൽ ഇപ്പോൾ I ഇന്റർസെക്ഷൻ J IJ യിൽ അടങ്ങിയിരിക്കുന്നുവെന്ന് കാണിക്കാൻ ഞാൻ ശ്രമിക്കുകയാണ് അതിനാൽ I ഇന്റർസെക്ഷൻ J യിലെ ഒരു ഘടകം a തിരഞ്ഞെടുക്കാം ഒടുവിൽ a IJ യിലാണെന്ന് നമ്മൾ കാണിക്കും അതിനാൽ ഇപ്പോൾ 1 rs ന് തുല്യമാണ് അത് നമുക്കറിയാം അതിനാൽ നമുക്ക് ar എഴുതാം a എന്നത് aras ന് തുല്യമാണ് ഞാൻ ഇരുവശവും a കൊണ്ട് ഗുണിക്കുന്നു 1 എന്നത് r s ന് തുല്യമാണ് അതായത് a എന്നത് aras ന് തുല്യമാണ് ഇത് എനിക്ക് ആവശ്യമുള്ളത് തരും എന്ന് ഞാൻ അവകാശപ്പെടുന്നു കാരണം നമുക്ക് ar ലേക്ക് നോക്കാം എന്താണ് r r എന്നത് I ൽ ആണ് a ഒരു ആർബിട്രറി റിംഗ് ഘടകമാണ് അതിനാൽ ar എന്നത് I ലാണ് a എന്നത് ഒരു ആർബിട്രറി റിംഗ് ഘടകമാണ് r എന്നത് I ന്റെ ഒരു ഘടകമാണ് അതിനാൽ ഇത് I ലാണ് സമാനമായി s J യിൽ ആണ് a ഒരു ആർബിട്രറി റിംഗ് ഘടകമാണ് അതിനാൽ as J ൽ ആണ് ar I യിൽ ആണ് അതിനർത്ഥം അവിടെ ഒരു IJ ഉണ്ട് അതിനാൽ a എന്നത് I ലുള്ള ഏതിൻറെയെങ്കിലും J ലുള്ള ഏതിൻറെയെങ്കിലും തുകയാണ് എന്ന് നമുക്ക് എഴുതാം അതിനർത്ഥം I ഇന്റർസെക്ഷൻ J യുടെ ആർബിട്രറി റിംഗ് ഘടകത്തിൽ നിന്നാണ് നമ്മൾ എല്ലാം ആരംഭിച്ചത് അത് IJ യിലാണെന്ന് നമ്മൾ നിഗമനം ചെയ്യുന്നു അതിനാൽ I ഇന്റർസെക്ഷൻ J IJ ആണ് അതിനാൽ എല്ലായ്പ്പോഴും ഉൾക്കൊള്ളുന്ന മറ്റ് ഉൾപ്പെടുത്തലുകൾ നമ്മൾക്ക് ഉണ്ട് അതിനാൽ IJ I ഇന്റർസെക്ഷൻ J ക്ക് തുല്യമാണ് അതിനാൽ നിർണായകമായി ആവശ്യമായ രണ്ടാമത്തെ ഉൾപ്പെടുത്തൽ സത്യത്തിൽ IJ R ആണെന്നതാണ് അതിനാൽ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് ശരിയല്ല അതിനാൽ നമുക്ക് R നെ Z ഉം I 2Z ഉം J 4Z ഉം ആയി എടുക്കാം അതിനാൽ ഐഡിയൽ I എല്ലാം ഇരട്ടസംഖ്യകളാണ് ഐഡിയൽ J എല്ലാം 4 ൻറെ ഗുണിതങ്ങളുംആണ് എന്താണ് IJ ഈ സാഹചര്യത്തിൽ നിങ്ങൾക്ക് അത് പരിശോധിക്കാൻ കഴിയും അത് 8Z ആണ് അതിനാൽ നിങ്ങൾ I ന്റെ ഘടകങ്ങളുടെ ഗുണിതഫലങ്ങൾ J ന്റെ ഘടകങ്ങൾ ഉപയോഗിച്ച് ചേർക്കുന്നു എല്ലാം 8 ന്റെ ഗുണിതമായിത്തീരുന്നു കാരണം 2X4 അത് ഒരു നിർണ്ണായക ഐഡിയയാണ് എന്താണ് IJ നിങ്ങൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ക്ഷമിക്കണം യഥാർത്ഥത്തിൽ ഞാൻ ഒരു തെറ്റ് വരുത്തി ഞാൻ ഇവിടെ തിരികെ പോകണം I ഇന്റർസെക്ഷൻ J IJ യിൽ അടങ്ങിയിരിക്കുന്നുവെന്ന് കാണിക്കാൻ എനിക്ക് താൽപ്പര്യമില്ല IJ R ആണ് അതിനാൽ തീർച്ചയായും I ഇന്റർസെക്ഷൻ J IJ യിൽ അടങ്ങിയിരിക്കുന്നു എനിക്ക് വേണ്ടത് a IJ യിൽ അടങ്ങിയിരിക്കുന്നു എന്നതാണ് അതിനാൽ എനിക്ക് വേണ്ടത് I ഇന്റർസെക്ഷൻ J യിൽ അടങ്ങിയിരിക്കുന്നു എന്നതാണ് അതിനാൽ ഞാൻ ഇവിടെ തിരികെ പോകട്ടെ a I യിൽ അടങ്ങിയിരിക്കുന്നു r s എന്നിവ J യിൽ അടങ്ങിയിരിക്കുന്നു അതിനാൽ IJ ൽ അടങ്ങിയിരിക്കുന്നതുപോലെ അതിനാൽ ഞാൻ ഇവിടെ ചിലത് നഷ്ടപ്പെടുത്തി അതുപോലെ a J യിലും r I യിലും അടങ്ങിയിരിക്കുന്നു അതിനാൽ ar IJ ൽ അടങ്ങിയിരിക്കുന്നു എന്നാണ് സൂചിപ്പിക്കുന്നത് അതിനാൽ ഞാൻ ഇവിടെ എഴുതിയിരിക്കണം a ഞാൻ ഒരിക്കലും ഉപയോഗിച്ചിട്ടില്ലെന്ന് ഓർക്കുക a യഥാർത്ഥത്തിൽ I ഇന്റർസെക്ഷൻ J യിലും I J എന്നിവയിലും ഉണ്ട് J നിർണായകമാണ് അതിനാൽ a I യിൽ അടങ്ങിയിരിക്കുന്നു a J യിൽ അടങ്ങിയിരിക്കുന്നു r I യിൽ അടങ്ങിയിരിക്കുന്നു അതിനാൽ ar IJ ൽ അടങ്ങിയിരിക്കുന്നു ഇത് J ലെയും I ലെയും ഉള്ള എന്തിൻറെയെങ്കിലും ഗുണനഫലമാണ് അതുപോലെ തന്നെയാണ് as ഉം അത് J ലെയും I ലെയും ഉള്ള എന്തിൻറെയെങ്കിലും ഗുണനഫലമാണ് ar IJ ൽ അടങ്ങിയിരിക്കുന്നതുപോലെ അതിനാൽ a aras ന് തുല്യമാണ് ഇത് IJ യിലുള്ള എന്തിനെയെങ്കിലും കൂട്ടിയാൽ കിട്ടുന്നതാണ് അതിനർത്ഥം a IJ യിൽ ആണ് അതിനാൽനമ്മൾ കാണിച്ചതെന്തെന്നാൽ I ഇന്റർസെക്ഷൻയിൽ J IJ യിൽ അടങ്ങിയിരിക്കുന്നു എന്നതാണ് അതിനാൽ I ഇന്റർ സെക്ഷൻ J IJ ക്ക് തുല്യമാണ് ഇവിടെ ഞാൻ I ഇന്റർസെക്ഷൻ J ഇതിനകം IJ യിൽ അടങ്ങിയിരിക്കുന്നുവെന്ന് കാണിച്ചു ക്ഷമിക്കണം ഇവിടെ നമ്മൾ കാണിച്ചത് IJ I ഇന്റർസെക്ഷൻ J യിൽ അടങ്ങിയിരിക്കുന്നുവെന്നാണ് ഇപ്പോൾ നമ്മൾ I ഇന്റർസെക്ഷൻയിൽ J IJ യിൽ അടങ്ങിയിരിക്കുന്നു എന്ന് കാണിക്കാൻ ശ്രമിക്കുകയാണ് അതിനാൽ I ഇന്റർസെക്ഷൻ J IJ യ്ക്ക് തുല്യമാണ് ഇപ്പോൾ ഈ ഉദാഹരണം കാണിക്കുന്നത് I ഇന്റർസെക്ഷൻ J പൊതുവായി IJ ന് തുല്യമല്ല എന്നാണ് അതിനാൽ ഈ ഉദാഹരണത്തിൽ I 2Z ഉം J 4Z ഉം ആയിരിക്കുമ്പോൾ IJ 8Z ആണ് ഇത് പരിശോധിക്കുന്നത് എളുപ്പമാണ് എന്താണ് I ഇന്റർ സെക്ഷൻ J ഈ സാഹചര്യത്തിൽ ഓർക്കുക J യഥാർത്ഥത്തിൽ I ൽ അടങ്ങിയിരിക്കുന്നു കാരണം 4 ന്റെ ഓരോ ഗുണിതവും തീർച്ചയായും ഇരട്ടയാണ് അതിനാൽ നിങ്ങൾ I J എന്നിവയുടെ ഇന്റർസെക്ഷൻ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് J ലഭിക്കും അതിനാൽ തീർച്ചയായും J 4Z ആണ് അതിനാൽ രണ്ട് ഐഡിയലുകളുടെ ഇന്റർസെക്ഷൻ 4Z ആണ് രണ്ട് ഐഡിയലുകളുടെ ഗുണിതഫലം 8Z ആണ് അതിനാൽ IJ I ഇന്റർസെക്ഷൻ J യ്ക്ക് തുല്യമല്ല എന്നാൽ ഒരു ഉൾപ്പെടുത്തൽ എല്ലായ്പ്പോഴും IJ നെ പിടിക്കുന്നു അത് 8Z ആണ് അത് I ഇന്റർസെക്ഷൻ J യിൽ അടങ്ങിയിരിക്കുന്നു പരിഹാരത്തിൽ നിങ്ങൾ എല്ലായ്പ്പോഴും കൈവശം വച്ചിരിക്കുന്നത് കണ്ടാൽ ഗുണിതഫലം നമ്മുടേത് ഇന്റർസെക്ഷനിലാണെന്നതാണ് നമുക്ക് ഇവിടെ ഇല്ലാത്തത് I ഇന്റർസെക്ഷൻ J IJ യിൽ അടങ്ങിയിരിക്കുന്നു എന്നതാണ് അതിനാൽ ഇത് സംഭവിക്കുന്നില്ല പക്ഷേ ഈ ഉൾപ്പെടുത്തൽ എല്ലായ്പ്പോഴും നിലനിൽക്കുന്നു ഇവിടെ പ്രശ്നം എന്തുകൊണ്ടാണ് ഈ പ്രശ്നത്തിൽ വാദം പ്രവർത്തിക്കാത്തത് എന്തുകൊണ്ട് ഈ രണ്ട് ഐഡിയലുകളുടെ ആകെത്തുകയും നിങ്ങൾക്കായി ഒരു പ്രവർത്തനവും ഉള്ളതിനാലാണ് നിങ്ങൾക്കത് പരിശോധിക്കാൻ ഞാൻ വിടുന്നു ഈ ഐഡിയലുകളുടെ ആകെത്തുക യഥാർത്ഥത്തിൽ 2Z ആണ് അത് Z അല്ല I J എന്നിവയുടെ ഘടകങ്ങളുടെ ആകെത്തുക എടുത്താൽ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ 2Z ലഭിക്കും അത് പൂർണ്ണ വലയത്തിന് തുല്യമല്ല അതിനാൽ തുക ഒരു ഉചിതമായ ഐഡിയൽ മാത്രമാണ് അതിനാൽ പ്രശ്നത്തിലെ വാദം പ്രവർത്തിക്കുന്നില്ല മാത്രമല്ല ഗുണനഫലത്തിന്റെയും ഇന്റർസെക്ഷന്റെയും തുല്യത നമ്മൾക്ക് ഇല്ല അതിനാൽ ഗുണനഫലം എല്ലായ്പ്പോഴും ഇന്റർസെക്ഷനിൽ അടങ്ങിയിരിക്കുന്നുവെന്ന് ഓർക്കുക പക്ഷേ ഗുണനഫലം ഇന്റർസെക്ഷനിൽ അടങ്ങിയിരിക്കണമെങ്കിൽ ഐഡിയലുകളുടെ ആകെത്തുക പൂർണ്ണ വളയമാണെന്ന് നിങ്ങൾ അനുമാനിക്കേണ്ടതുണ്ട് അതിനാൽ ഈ പ്രശ്നത്തിൽ വന്ന കുഴപ്പത്തിൽ ഖേദിക്കുന്നു പക്ഷേ ഇപ്പോൾ ഇത് വ്യക്തമാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതിനാൽ ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്ത വീഡിയോയിൽ നമ്മൾ കൂടുതൽ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് തുടരും നന്ദി